ഞങ്ങളുടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചാനൽ റൂട്ടിംഗിനായുള്ള അടിസ്ഥാന ഇടത് എഡ്ജ് അൽഗോരിതത്തെക്കുറിച്ചും അതിന്റെ ചില വകഭേദങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചിരുന്നു അവിടെ വെർട്ടിക്കൽ കോൺസ്ട്രയിന്റ് കൈകാര്യം ചെയ്യുന്നതിനും ഡോഗ്ലെഗുകൾ അനുവദിക്കുന്നതിനുമായി ഞങ്ങൾ അൽഗോരിതം നീക്കം വിപുലീകരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടരുന്നു ഞങ്ങൾ ആദ്യം നെറ്റ് മെർജ് ചാനൽ റൂട്ടറിനെ കുറിച്ച് സംസാരിക്കും ഈ അൽഗോരിതം യോഷിമുറ കുഹ് എന്നീ അർത്ഥങ്ങളാൽ ഉണ്ടായതാണ് ഇതിനെ ചിലപ്പോൾ യോഷിമുറ കുഹ് അൽഗോരിതം എന്നും വിളിക്കാറുണ്ട് നെറ്റ് മെർജ് ചാനൽ റൂട്ടിംഗ് നിങ്ങൾ കാണുന്നു ആശയം ഇതുപോലെയാണ് നിങ്ങൾക്ക് ഒന്നിലധികം വലകൾ ഉണ്ട് 1 2 3 4 അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരു ചാനലിൽ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് i ഉം j ഉം 2 വലകൾ ഉണ്ടെന്ന് കരുതുക ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് i ഉം j ഉം ഏതെങ്കിലും അർത്ഥത്തിൽ പൊരുത്തപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവ ഒരേ ട്രാക്കിൽ സ്ഥാപിക്കാൻ കഴിയും എന്ന അർത്ഥത്തിൽ നിങ്ങൾ അവയെ ലയിപ്പിക്കാൻ ശ്രമിക്കുക അതിനാൽ നിങ്ങൾ 1 ഉം 3 ഉം ലയിപ്പിച്ചാൽ നമുക്ക് പറയാം നിങ്ങൾ 2 നോഡുകൾ അല്ലെങ്കിൽ 1 ഉം 3 ഉം ഒന്നിച്ച് ഒരു സൂപ്പർ വെർട്ടെക്സ് ഉണ്ടാക്കുന്നു 1 3 എന്നിവ നിങ്ങൾ എവിടെ നീങ്ങുന്നുവോ അവയെല്ലാം ഒരുമിച്ച് നീങ്ങുമെന്ന് സൂപ്പർ വെർട്ടെക്സ് സൂചിപ്പിക്കാം ഈ രീതിയിൽ രണ്ടോ അതിലധികമോ വലകൾ ഒരേ ട്രാക്കിൽ ഗ്രൂപ്പുചെയ്യാനും അവയ്ക്കിടയിൽ നിലനിൽക്കുന്ന ലംബമായ പരിമിതിയെ ആശ്രയിച്ച് ആ മുഴുവൻ ക്ലസ്റ്ററും മുകളിലേക്കും താഴേക്കും നീക്കാനും ശ്രമിക്കുന്നു അതിനാൽ ഇത് നെറ്റ് മെർജ് ചാനൽ റൂട്ടറിന്റെ പിന്നിലെ അടിസ്ഥാന ആശയം സോണുകൾ പരസ്പരം ബന്ധങ്ങൾ സോണുകൾ തിരിച്ചറിയുകയും നിർവചിക്കുകയും ചെയ്തുകഴിഞ്ഞാൽ ചില ഗ്രാഫ് അധിഷ്ഠിത പ്രോസസ്സിംഗ് എന്നാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണും അതിനാൽ നമുക്ക് അടിസ്ഥാന ആശയം നോക്കാം ആദ്യ പോയിന്റ് പ്രധാനമാണ് ഒരു ലംബമായ കൺസ്ട്രെയിന്റ് ഗ്രാഫിൽ p യുടെ നീളമുള്ള ഒരു പാത ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ചാനലിനെ റൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കുറഞ്ഞത് p തിരശ്ചീന ട്രാക്കുകളെങ്കിലും ആവശ്യമാണ് അത് എന്തുകൊണ്ട് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് 1 നും 2 നും ഇടയിൽ ഒരു ലംബമായ പരിമിതി ഉണ്ടെന്ന് കരുതുക 2 നും 3 നും 3 നും 4 നും ഇടയിൽ പറയുകയും 4 ഉം 5 ഉം പറയുകയും ചെയ്യുക അതിനാൽ ഇവിടെ സൈക്കിൾ ഇല്ലെങ്കിലും 1 മുതൽ 2 വരെയുള്ള ലംബ നിയന്ത്രണ ഗ്രാഫിൽ ഒരു നീണ്ട ചെയിൻ ഉണ്ട് 2 മുതൽ 3 വരെയും 3 മുതൽ 4 വരെയും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ റൂട്ട് ചെയ്യണമെങ്കിൽ അതിനാൽ നിങ്ങളുടെ പരിഹാരം ഇതുപോലെ കാണപ്പെടും നമുക്ക് 1 ന് ഒരു ടെർമിനൽ കൂടി എടുക്കാം ഇവിടെ 1 എന്ന് പറയുക നിങ്ങൾ ഇവിടെയും മറ്റൊരു ടെർമിനൽ 5 ഇവിടെയും പറയാം അതിനാൽ നിങ്ങൾക്ക് റൂട്ട് 1 വേണമെങ്കിൽ അവയെ ഈ ആദ്യ ട്രാക്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാരണം 1 എന്നത് ഇൻകമിംഗ് അരികുകളില്ലാത്ത ശീർഷകമാണ് അതിനാൽ 1 ആദ്യം ഇടേണ്ടതുണ്ട് തുടർന്ന് നിങ്ങൾ 2 ലേക്ക് പോകുക അതിനാൽ 2 സ്വാഭാവികമായും ഒരു ഓവർലാപ്പ് ഉണ്ട് നിങ്ങൾ അത് രണ്ടാമത്തെ ട്രാക്കിൽ ഇടണം 3 3 വീണ്ടും ഇവിടെ ഒരു ഓവർലാപ്പ് ഉണ്ട് അതിനാൽ മൂന്നാമത്തെ ട്രാക്കിൽ 3 ഇടണം 4 വീണ്ടും ഒരു ഓവർലാപ്പ് ഉണ്ടാകും ഫോർത്ത് തീർച്ചയായും നാലാമത്തെ ട്രാക്കിൽ ഇടേണ്ടതുണ്ട് ഇവിടെ 5 വരെ മറ്റൊന്നുണ്ട് 4 മുതൽ 5 വരെ ഇത് ഒരു പരിമിതിയും 5 വീണ്ടും ഓവർലാപ്പും ഉണ്ട് അതിനാൽ നിങ്ങൾ മറ്റൊരു ട്രാക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് ലംബ നിയന്ത്രണ ഗ്രാഫിൽ ഞങ്ങൾക്ക് ഒരു നീണ്ട ശൃംഖലയുണ്ടെങ്കിൽ ഇതൊരു മോശം സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് 1 2 3 4 5 എന്നീ പരിഹാരങ്ങളിൽ 5 ട്രാക്കുകൾ ആവശ്യമാണ് അതിനാൽ അവബോധപൂർവ്വം നീളം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു VCG യിലെ ഏറ്റവും ദൈർഘ്യമേറിയ ശൃംഖലയുടെ പരമാവധി നമുക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് ട്രാക്കുകളുടെ എണ്ണം കുറയ്ക്കും എന്ന അവബോധജന്യമായ ആശയത്തോടെ നിങ്ങൾക്ക് ട്രാക്കുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ചാനലിന്റെ ഉയരം കുറയ്ക്കുകയാണെന്ന് അർത്ഥമാക്കുന്നു ഇത് ഏരിയ റൂട്ടിംഗ് ഏരിയ എല്ലാം ശരിയാക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാന ആശയം വിസിജിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത കുറയ്ക്കുക എന്നതാണ് ഈ ദൈർഘ്യമേറിയ പാത കുറയ്ക്കുന്നതിന് ചില നോഡുകൾ ലയിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഇത് നമുക്ക് കാണാം വീണ്ടും അടിസ്ഥാന നെറ്റ് മെർജ് ചാനൽ റൂട്ടിംഗ് അൽഗോരിതം വിസിജിയിൽ ഡോഗ്ലെഗുകളോ സൈക്കിളുകളോ അനുവദിക്കുന്നില്ല എന്നാൽ ഇത് അടിസ്ഥാന ഇടത് എഡ്ജ് അൽഗോരിതത്തിന് ഒതുക്കമുള്ള മികച്ച പരിഹാരത്തിലേക്ക് നയിക്കുന്ന കൂടുതൽ സങ്കീർണ്ണമായ അൽഗോരിതം ആണ് സോണുകൾ എന്ന ആശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ മൊത്തം റൂട്ടിംഗ് ചാനലിനെ മേഖലകളായ നിരവധി സോണുകളായി തിരിച്ചിരിക്കുന്നു അടുത്തുള്ള സോണുകളിൽ നിങ്ങൾ അവയുടേതായ വലകൾ നോക്കുന്നു അവ ആവശ്യമുള്ളപ്പോൾ ലയിപ്പിക്കാം ഒരിക്കൽ അവ ലയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ് നെറ്റ് എന്ന് വിളിക്കുന്നു തുടക്കത്തിൽ ഞങ്ങൾക്ക് വ്യക്തിഗത വലകൾ ഉണ്ടായിരുന്നു അതിനാൽ സോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് നിങ്ങൾ നിർവ്വചിക്കുന്നു അടുത്തുള്ള സോണുകൾക്കിടയിൽ നിങ്ങൾക്ക് ചില വലകൾ ലയിപ്പിക്കാൻ കഴിയുന്ന ചില നിയമങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ് നെറ്റ് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ് നെറ്റ് ലഭിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു സംയുക്ത വലയിൽ 2 വലകൾ i j എന്നിവ അടങ്ങിയിരിക്കുന്നുവെങ്കിൽ i ഉം j ഉം ഒരേ ട്രാക്കിൽ വേണം അത് നിങ്ങൾ അധികമായി അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണമാണ് അതിനാൽ അൽഗോരിതത്തിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് 3 പ്രധാന ഘട്ടങ്ങളുണ്ട് സോൺ പ്രാതിനിധ്യം നെറ്റ് ലയനം ട്രാക്ക് അസൈൻമെന്റ് ഇതുപോലുള്ള ഒരു ഉദാഹരണ ചാനലിന്റെ സഹായത്തോടെ ഞങ്ങൾ ഈ പ്രക്രിയകൾ ചിത്രീകരിക്കും 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുള്ള 10 വലകളുള്ള ഒരു ഉദാഹരണ ചാനൽ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഈ തിരശ്ചീന രേഖകൾ ഓരോ വലകളുടെയും ഈ സ്പാൻ കാണിക്കുന്നു ഇത് നെറ്റ് 1 ന്റെ സ്പാൻ ആണ് ഇത് നെറ്റ് നമ്പർ 4 ന്റെ സ്പാൻ ആണ് ഇത് നെറ്റ് നമ്പർ 5 ന്റെ സ്പാൻ ആണ് ഇവിടെയും ഇവിടെയും ഇവിടെയും കണക്ഷനുകൾ ഉണ്ട് ഇത് നെറ്റ് നമ്പർ 9 ന്റെ സ്പാൻ ആണ് അതിനാൽ ഇത് മൾട്ടി ടെർമിനൽ നെറ്റുകളും അനുവദിക്കുന്നു അതിനാൽ വലകളുടെ ഈ സ്പാനിൽ നിന്ന് നിങ്ങൾക്ക് തിരശ്ചീന നിയന്ത്രണ ഗ്രാഫ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു അത് നെറ്റ് 1 ഉം 3 ഉം ഓവർ ലാപ്പിംഗ് ആണെന്നും 1 ഉം 4 ഉം ഓവർ ലാപ്പിംഗ് ആണെന്നും 1 ഉം 5 ഉം ഓവർ ലാപ്പിംഗ് ആണെന്നും അങ്ങനെ 1 ഉം 2 ഉം ഓവർ ലാപ്പിംഗ് ആണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളത്തിലും ചില വിവരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കോളം 1 കോളം 2 കോളം 3 ഇവ ഓവർലാപ്പ് ചെയ്യുന്ന വലകളാണ് ഉദാഹരണത്തിന് ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് നെറ്റ് 2 മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് 1 3 ഉം 2 ഉം ഉണ്ട് മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് 4 ഉം 5 ഉം ഉണ്ട് കൂടാതെ 5 വലകൾ ഉണ്ട് അഞ്ചാമത്തെ കോളത്തിലും 5 വലകൾ ഉണ്ട് ആറാമത്തെ കോളത്തിൽ 1 4 5 ഉം 2 ഉം 3 ഉം ഇല്ല 3 ഇവിടെ നിർത്തി അതിനാൽ ഓരോ കോളത്തിലും ആ കോളം കടക്കുന്ന വലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ സോൺ പ്രാതിനിധ്യത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം ഇതാണ് ഇവിടെ കോളം 1 2 3 4 പോലെ ഈ ചാനലിന്റെ എല്ലാ കോളത്തിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സെറ്റ് Si നിർവചിക്കുന്നു അത് നിര i ക്രോസ് ചെയ്യുന്ന നെറ്റ്സിന്റെ സെറ്റിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് S1 S2 S3 S4 S5 നിരവധി സെറ്റുകൾ ലഭിക്കും ഇപ്പോൾ അവയിൽ നിങ്ങൾക്ക് ഉദാഹരണമായി കണ്ടെത്താം നിങ്ങളുടെ S1 2 മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂവെന്ന് കരുതുക എസ് 2 2 3 5 എന്നിവ ഉൾക്കൊള്ളുന്നുവെന്ന് കരുതുക S3 2 3 4 5 ഉൾക്കൊള്ളുന്നുവെന്ന് കരുതട്ടെ ഈ S4 ലെറ്റ് ഉൾക്കൊള്ളുന്നു 3 ഉം 5 ഉം പറയുക ഇതൊരു ഉദാഹരണമാണെന്ന് പറയാം നിങ്ങൾക്ക് അത്തരം ഒരു സെറ്റ് ഉണ്ടെങ്കിൽ സോണുകൾ എന്ന് പറയാം നിങ്ങൾക്ക് പരമാവധി സോൺ തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നു 2 3 4 5 ആണ് പരമാവധി സെറ്റ് മറ്റുള്ളവ ഇവയുടെ ഉപഗണങ്ങളാണ് 2 എന്നത് ശരിയായ ഗണമാണ് 2 3 5 എന്നത് ശരിയായ ഉപഗണമാണ് 3 5 എന്നത് ശരിയായ ഉപഗണമാണ് അതിനാൽ നിങ്ങൾ ഈ ഉപസെറ്റുകൾ അവഗണിക്കുന്നു നിങ്ങൾ പരമാവധി സെറ്റ് മാത്രമേ എടുക്കൂ ഇത് ഒരു സോൺ നിർവ്വചിക്കും ഇത് നിങ്ങളുടെ ഒരു സോൺ ആയിരിക്കും അതുപോലെ നിങ്ങൾ മറ്റ് സോണുകൾ നിർവചിക്കുന്നത് തുടരുന്നു ഇത് ഒരുപക്ഷേ ഇത് സോൺ 1 ആയിരിക്കും തുടർന്ന് നമുക്ക് സോൺ 2 ഉണ്ടായിരിക്കും ഇതാണ് അടിസ്ഥാന ആശയം ഞാൻ ചിത്രീകരിച്ചത് പോലെ പരമാവധി Si കൾ മാത്രമേ നിങ്ങൾ എടുക്കൂ ഓരോ പരമാവധി സെറ്റുകൾക്കും ഒരു സോൺ നിർവചിക്കണമെന്നതാണ് ആശയം തിരശ്ചീന നിയന്ത്രണ ഗ്രാഫ് സോൺ എന്നതിനർത്ഥം അത് ഗ്രാഫിലെ പരമാവധി ക്ലിക്കുമായി പൊരുത്തപ്പെടുന്നു എന്നാണ് എന്താണ് ഇതിനർത്ഥം നമുക്ക് വീണ്ടും ഇതിലേക്ക് മടങ്ങാം 2 3 4 5 കാണുക എന്താണ് അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് പ്രതിനിധാനം ഉണ്ടെങ്കിൽ 2 3 എന്നിവയുടെ തിരശ്ചീന സെഗ്മെന്റുകൾ വിഭജിക്കുന്നു അവിടെ ലംബങ്ങൾ വലകളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ 4 ഒരു സെറ്റിൽ പെടുന്നു എന്നതിനർത്ഥം ഓരോ ജോഡികൾക്കിടയിലും ഒരു തിരശ്ചീന പരിമിതി ഉണ്ടെന്നാണ് അതിനാൽ ഇതൊരു ക്ലിക് 4 വെർട്ടീസാണ് ഇതിനെ 4 ക്ലിക് എന്ന് വിളിക്കുന്നു ക്ലിക് എന്നാൽ പരമാവധി ബന്ധിപ്പിച്ച ഗ്രാഫ് എന്നാണ് അർത്ഥമാക്കുന്നത് ഓരോ ജോടി ലംബങ്ങൾക്കും അവയ്ക്കിടയിൽ അരികുണ്ട് അതിനാൽ അത്തരം ഓരോ പരമാവധി സെറ്റിനും നിങ്ങൾക്ക് അത്തരമൊരു ക്ലിക് നിർവ്വചിക്കാം അതിനാൽ ഒരു സോൺ ഗ്രാഫിൽ ഒരു പരമാവധി ക്ലിക്കിനെ സൂചിപ്പിക്കും പറയട്ടെ അതിനാൽ നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ഉദാഹരണത്തിന് നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് 2 രണ്ടാമത്തെ കോളം 1 1 ഇത് 3 ഇത് 2 മൂന്നാമത്തെ കോളം 4 1 ഇത് 1 ഇത് 4 ഇത് 5 ഇത് 3 ഇത് 2 അങ്ങനെ നിങ്ങൾ ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സെറ്റുകൾ ലഭിക്കുമെന്ന് നിങ്ങൾ കാണും കോളം 1 ഉം അനുബന്ധ സെറ്റുകളും കോളം 1 ഇത് 2 1 2 3 1 2 3 4 5 1 2 3 4 5 1 2 4 5 പിന്നെ 2 4 6 ആണ് നിങ്ങളുടെ സെറ്റുകൾ വർദ്ധിക്കുന്നതും വർദ്ധിക്കുന്നതും വർദ്ധിക്കുന്നതും നിങ്ങൾ കാണുന്നു പരമാവധി 1 2 3 4 5 സെറ്റ് ലഭിക്കുന്നു ഇത് കുറയുന്നു പക്ഷേ ഇപ്പോഴും ഇത് നിങ്ങൾ എടുക്കുന്ന 1 2 4 5 എന്ന ഉപവിഭാഗമാണ് എന്നാൽ ഒരു പുതിയ ഘടകം 6 വരുന്നിടത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ഇനി ഇതിന്റെ ഉപവിഭാഗമല്ല നിങ്ങൾ അടുത്ത സോണിലേക്ക് നീങ്ങുന്നു ഈ രീതിയിൽ നിങ്ങൾ സോണുകൾ നിർവചിക്കുന്നു നിങ്ങൾ ഇത് ചെയ്യുന്നത് തുടരുന്നു ഈ മുഴുവൻ കാര്യവും ഒരു സോണുമായി പൊരുത്തപ്പെടും നിങ്ങൾ ഇവിടെ പരമാവധി സെറ്റ് 1 2 3 4 5 പരിഗണിക്കുന്നു തുടർന്ന് ആറാം നിരയിൽ തുടരുന്നത് നിങ്ങൾക്ക് 2 4 6 കാണാനാകും ഒന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല 2 4 6 കാരണം അടുത്ത കോളത്തിൽ നിങ്ങളുടെ 4 6 7 ഉം പുതിയ നെറ്റ്സ് 7 ഉം വരുന്നു അപ്പോൾ നിങ്ങൾക്ക് 4 7 8 ഉണ്ട് ഇവിടെ തീർച്ചയായും 4 7 8 9 7 8 9 ഈ 3 ന് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും കാരണം 4 7 8 9 പരമാവധി ആണ് ഈ 2 ഇതിന്റെ ഉപവിഭാഗങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് 7 9 10 9 10 ഇതാണ് ഇതിന്റെ ഉപവിഭാഗം അതിനാൽ ഈ പ്രത്യേക പ്രശ്നത്തിന് നിങ്ങൾക്ക് ഇതുപോലുള്ള സോണുകൾ നിർവചിക്കാം കൂടാതെ 5 സോണുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാകും ഇതൊരു സോൺ പ്രാതിനിധ്യം മാത്രമാണ് ഈ സോൺ പ്രാതിനിധ്യം നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഞങ്ങൾ പിന്നീട് നോക്കാം എനിക്ക് 5 സോണുകൾ ഉണ്ടെന്ന് ഇത് പറയുന്നു ആദ്യ സോണിൽ എനിക്ക് നെറ്റ് നമ്പറുകൾ 1 2 3 4 5 ഉണ്ട് ഞാൻ ഇത് ഇതുപോലെ കാണിക്കുന്നു 1 2 3 4 ഒപ്പം 5 ഇത് സോൺ 1 സോൺ 2 ലാണ് സോൺ 2 എനിക്ക് 2 4 6 ഉണ്ട് അതിനാൽ സോൺ 2 ൽ 2 തുടരുന്നു 4 തുടരുന്നു ഒരു പുതിയ നെറ്റ് 6 ആരംഭം അതിനാലാണ് 6 സോൺ 3 4 6 7 4 തുടരുന്നു 6 തുടരുന്നു ഒരു പുതിയത് ഇവിടെ കാണിക്കുന്നു net 7 ഇവിടെ വരുന്നു സോൺ 4 4 7 8 9 അതുപോലെ 4 തുടരുന്നു 7 തുടരുന്നു 8 9 7 9 10 7 തുടരുന്നു 9 തുടരുന്നു 10 ഇതാണ് സോൺ പ്രാതിനിധ്യം ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വെർട്ടിക്കൽ കോൺസ്ട്രയിന്റ് ഗ്രാഫ് നിർവചിക്കാം 3 ന് മുകളിൽ 1 മുകളിൽ 4 5 3 ന് മുകളിൽ 5 എന്നിങ്ങനെ അതിനാൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന വിസിജി ഞാൻ ഇവിടെ കാണിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് സോൺ പ്രാതിനിധ്യമുണ്ട് ഞങ്ങൾക്ക് വെർട്ടിക്കൽ കോൺസ്ട്രയിന്റ് ഗ്രാഫ് അവകാശമുണ്ട് അതിനാൽ ഞങ്ങൾ ഈ സോണുകൾ തിരിച്ചറിഞ്ഞു ഘട്ടം 2 പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ചില വലകൾ ലയിപ്പിക്കാൻ നീങ്ങുന്നു ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് മടങ്ങുന്നു അതിനാൽ എന്റെ പക്കൽ നെറ്റ്സ് 1 2 3 4 5 6 7 8 9 10 ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാര്യം ഞാൻ അവബോധപൂർവ്വം കാണിക്കുന്നു നിങ്ങൾ നെറ്റ് നമ്പർ 5 ഉം 6 ഉം കാണുമ്പോൾ അവർക്ക് സോണുകൾ 1 ലും 1 ലും ട്രാക്ക് പങ്കിടാനാകും 2 അവർക്ക് പൊതുവായി ഒന്നുമില്ലാത്തതിനാൽ ഒരു വിച്ഛേദമുണ്ട് അതുപോലെ 1 ഉം 6 ഉം 3 ഉം 6 ഉം അവർക്ക് ശരിയായി പങ്കിടാം അതിനാൽ ആശയം ഇതുപോലെയുള്ളതാണ് 2 വലകൾ Ni Nj ഉണ്ടെങ്കിൽ ഈ 2 നിബന്ധനകൾ ശരിയാണ് ആദ്യം അവയ്ക്കിടയിൽ ലംബമായ പരിമിതികളൊന്നുമില്ല കാരണം ലംബമായ പരിമിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെ ഒരേ ട്രാക്കിലേക്ക് ലയിപ്പിക്കാൻ കഴിയില്ല കൂടാതെ ലംബമായ നിയന്ത്രണവുമില്ല മാത്രമല്ല ഇത് തിരശ്ചീനമായ നിയന്ത്രണവുമല്ല ആദ്യത്തേത് തിരശ്ചീന നിയന്ത്രണമാണ് രണ്ടാമത്തേത് ലംബമായ നിയന്ത്രണമാണ് അതിനാൽ അതിനർത്ഥം തിരശ്ചീന ഓവർ ലാപ്പില്ല വിസിജിയിൽ ഡിപൻഡൻസി ഇല്ല അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവയെ ഒരൊറ്റ ട്രാക്കിൽ ലയിപ്പിക്കാൻ കഴിയൂ അതിനാൽ അത്തരം വ്യവസ്ഥകൾ നിലനിൽക്കുന്ന 2 വലകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വലകൾ ഒന്നിച്ച് സംയോജിപ്പിച്ച് ഒരു കോമ്പോസിറ്റ് നെറ്റ് ഉണ്ടാക്കാം അതിനാൽ നിങ്ങൾ ഒരു കോമ്പോസിറ്റ് നെറ്റ് രൂപീകരിച്ചുകഴിഞ്ഞാൽ വിസിജിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ലയിപ്പിച്ച ഈ Vi Vj നിങ്ങൾ Vi Vj എന്നിവ ഇല്ലാതാക്കി അതിനെ 1 നോഡ് Vij ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഇതൊരു സംയോജിത നോഡാണ് നിങ്ങൾ തിരശ്ചീന നിയന്ത്രണ ഗ്രാഫും ഈ സോൺ പ്രാതിനിധ്യവും യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നതിനുള്ള 2 ഇതര വഴികൾ കാണുന്നു HCG യും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നു സോൺ 1 ൽ 5 ക്ലിക് 1 2 3 4 5 ഉണ്ട് സോൺ 2 ൽ 3 ക്ലിക് 2 4 6 ഉണ്ട് സോൺ 3 അവിടെ 3 ക്ലിക്കുകൾ 7 4 5 അതിനാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് HCG യെ ഒരു ഗ്രാഫായി പ്രതിനിധീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു സോൺ പ്രാതിനിധ്യമായി കാണിക്കാം രണ്ടും തുല്യമാണ് അതിനാൽ Vi Vj എന്നിവയ്ക്ക് പകരം ഒരു നോഡ് നെറ്റ് Vij ഉപയോഗിച്ച് HCG പരിഷ്ക്കരിക്കുക അതായത് ഇപ്പോൾ ഞാൻ ലയിച്ചു എന്നാണ് Vi Vj എന്നിവ ഒരു കോമ്പോസിറ്റ് നെറ്റിലേക്ക് പ്രവേശിക്കുന്നു അത് Ni Nj എന്നിവയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ സോണുകൾ കൈവശപ്പെടുത്തുകയും പിന്നീട് അതേ ട്രാക്കിൽ അവ സ്ഥാപിക്കുകയും ചെയ്യും ഇതാണ് നെറ്റ് ലയനത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം ഇപ്പോൾ ഞാൻ ഇത് ഒരു ഉദാഹരണം ഉപയോഗിച്ച് ചിത്രീകരിക്കും ഈ പ്രക്രിയ മാറ്റമുള്ളതായിരിക്കും അതായത് നിങ്ങൾ ഇത് ചെയ്യുന്നത് തുടരുക ഓരോ ഘട്ടത്തിലും ലയിപ്പിക്കാനും അവയെ ലയിപ്പിക്കാനും കഴിയുന്ന ഒരു ജോടി നോഡുകൾ കണ്ടെത്തുന്നതിന് ഉദാഹരണത്തിന് Z1 നും Z2 നും ഇടയിൽ നിങ്ങൾക്ക് 1 ഉം 6 ഉം ലയിപ്പിക്കാം നിങ്ങൾക്ക് 3 ഉം 6 ഉം ലയിപ്പിക്കാം നിങ്ങൾക്ക് 5 ഉം 6 ഉം ലയിപ്പിക്കാൻ കഴിയും എന്നാൽ 2 ഉം 6 ഉം നിങ്ങൾക്ക് ലയിപ്പിക്കാൻ കഴിയില്ല കാരണം തിരശ്ചീനമായി ഒരു പരിമിതിയുണ്ട് 4 ഉം 6 ഉം നിങ്ങൾക്ക് ലയിപ്പിക്കാൻ കഴിയില്ല ഒരു തിരശ്ചീന പരിമിതിയുണ്ട് അതിനാൽ ഈ ഗ്രാഫിൽ 1 6 3 6 5 6 എന്നീ 3 ചോയ്സുകളുണ്ട് നിങ്ങൾക്ക് 1 ഉം 6 ഉം 3 ഉം 6 ഉം 5 ഉം 6 ഉം ലയിപ്പിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിരവധി ചോയ്സുകളുണ്ട് ഇപ്പോൾ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നത് ഒരു ഹ്യൂറിസ്റ്റിക് ആണ് നിങ്ങൾക്ക് ഒന്നിലധികം ചോയ്സുകൾ ഉണ്ടെങ്കിൽ VCG യിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാതയുടെ ദൈർഘ്യം കുറയ്ക്കുന്ന ആ ജോഡി വലകൾ നിങ്ങൾ ലയിപ്പിക്കുമെന്ന് അത് പറയുന്നു വിസിജിയിലെ പരമാവധി ദൈർഘ്യ പാത കുറയ്ക്കുക എന്നതും ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്ന് നിങ്ങൾ ഇവിടെ ഓർക്കുന്നു കാരണം അത് ട്രാക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ വിസിജിയിലെ പരമാവധി ദൈർഘ്യം പരമാവധി കുറയ്ക്കാൻ ഇടയാക്കുന്ന ജോഡി വലകൾ നിങ്ങൾ ലയിപ്പിക്കുന്നു അതിനാൽ തീർച്ചയായും ഒരു ഫലമുണ്ട് നിങ്ങളുടെ യഥാർത്ഥ വിസിജിക്ക് അനുമാനിച്ച സൈക്കിളുകൾ ഇല്ലെങ്കിൽ ലയിപ്പിച്ചതിന് ശേഷവും നിങ്ങൾക്ക് സൈക്കിളുകൾ ദൃശ്യമാകാൻ കഴിയില്ലെന്ന് പരിശോധിക്കുന്നത് എളുപ്പമാണ് അതിനും സൈക്കിളുകൾ ഉണ്ടാകില്ല അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ആവർത്തനം 1 ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ വിസിജി ശരിയാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ എനിക്ക് 1 6 3 6 അല്ലെങ്കിൽ 5 6 ലയിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ Z1 നും Z2 നും ഇടയിൽ ഞങ്ങൾ Z2 Z3 എന്നിവ കാണും തുടർന്ന് നിങ്ങൾ Z3 Z4 തുടങ്ങിയവ കാണും അതിനാൽ ആദ്യ ഘട്ടത്തിൽ എനിക്ക് 1 6 3 6 5 6 എന്നിങ്ങനെ 3 ചോയ്സുകൾ ഉണ്ട് ഞാൻ 1 6 ലയിപ്പിക്കുന്നു എന്ന് കരുതുക അതിനാൽ എന്റെ VCG ഇതിലേക്ക് രൂപാന്തരപ്പെടുന്നു ഞാൻ 3 6 ലയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇവ പരിശോധിക്കാം എന്റെ VCG ഇതിലേക്ക് പരിഷ്കരിക്കുന്നു ഞാൻ 5 6 ലയിപ്പിച്ചാൽ എന്റെ വിസിജി ഇതിലേക്ക് പരിഷ്കരിക്കും ഇനി നമുക്ക് പരമാവധി പാതകൾ നോക്കാം ആദ്യ സന്ദർഭത്തിൽ പരമാവധി പാത എന്താണ് നിങ്ങൾ 10 മുതൽ കാണുന്നു എനിക്ക് പരമാവധി പാത്ത് 10 മുതൽ 7 വരെ 7 ലേക്ക് ഇത് 5 5 മുതൽ 3 വരെ ലഭിക്കും അതിനാൽ 4 നീളമുള്ള പാതയുണ്ട് ഇവിടെ നിങ്ങൾക്ക് പരമാവധി 1 മുതൽ 5 വരെ 5 മുതൽ 3 6 3 6 മുതൽ 2 3 വരെ ആണ് അതിനാൽ ഇത് ആദ്യത്തേതിനേക്കാൾ മികച്ചതാണ് എന്നാൽ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് ഇതാണ് 7 6 ലയിപ്പിക്കുന്നു കാരണം ഇവിടെ നിങ്ങൾക്ക് 2 മാത്രമേ ലഭിക്കൂ അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം ചോയ്സുകളുണ്ടെങ്കിൽ ഈ ഉദാഹരണം കാണിക്കുന്നു നിങ്ങൾ എല്ലാ ബദലുകളും പര്യവേക്ഷണം ചെയ്ത് മികച്ചത് തിരഞ്ഞെടുക്കുക അതായത് 5 ഉം 6 ഉം ലയിപ്പിക്കുന്നു അതിനാൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഇത് ചെയ്യുന്നു അതായത് നിങ്ങൾ സോൺ 1 സോൺ 2 കൺസർവേറ്റീവ് സോണുകൾ നേരിടുമ്പോൾ ഈ യാഥാസ്ഥിതിക സോണുകളിലുടനീളമുള്ള ഏതൊക്കെ വലകൾ ലയിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്താൻ അത് തിരഞ്ഞെടുക്കുക മികച്ചത് തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങൾ അടുത്ത ജോഡി Z 2 Z 3 എന്നിവയിലേക്ക് പോകുക ലയിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ജോഡി വലകൾ അവയിലുടനീളം നിങ്ങൾ ഇത് ആവർത്തിച്ച് ആവർത്തിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് ആവർത്തനത്തിന്റെ ഫലങ്ങൾ കാണിക്കുന്നു അതിനാൽ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് 1 ഉം 7 ഉം ലയിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്താനാകും അതിനാൽ നിങ്ങൾക്ക് ആ സോൺ പ്രാതിനിധ്യത്തിലേക്ക് മടങ്ങാം അടുത്ത ഘട്ടങ്ങൾക്കിടയിൽ 1 7 Z 3 എന്നിവയിൽ എനിക്ക് 7 ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ 7 ഒരു പെർവിയസ് നെറ്റ്സുമായി ലയിപ്പിക്കാം കൂടാതെ 1 ഉം 7 ഉം നിങ്ങൾക്ക് മികച്ച റിഡക്ഷൻ നൽകുന്നു ഇത് നിങ്ങളുടെ ആദ്യക്ഷരമായതിനാൽ നിങ്ങൾ 1 ഉം 7 ഉം ലയിപ്പിച്ചാൽ നിങ്ങളുടെ നീളം അതേപടി തുടരുകയോ കുറയുകയോ ചെയ്യുമെന്ന് ചിന്തിക്കുക അതിനാൽ ഞാൻ മികച്ച പരിഹാരങ്ങൾ കാണിക്കുന്നു ആദ്യ ഘട്ടത്തിൽ 1 ഉം 7 ഉം ലയിപ്പിക്കുക തുടർന്ന് 5 6 9 എന്നിവ ലയിപ്പിക്കുക നിങ്ങളുടെ 3 ഉം 8 ഉം ലയിപ്പിക്കുന്നതിനേക്കാൾ 5 6 9 ആയി നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ് നോഡ് ലഭിക്കും 3 ഉം 8 ഉം കൂടി ലയിപ്പിക്കുക അതിനാൽ ഈ 1 7 3 ലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ അത് 3 8 ലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു 9 8 ലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു 9 എന്നത് 3 8 ലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങൾ 4 ഉം 10 ഉം ലയിപ്പിക്കുന്ന അവസാന ഘട്ടമായതിനാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പരിഹാരമുണ്ട് അവിടെ നിങ്ങൾ ലയിപ്പിക്കാൻ കഴിയുന്ന എല്ലാ വലകളും ലയിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പാതയുടെ പരമാവധി ദൈർഘ്യം 1 2 ഉം 3 ഉം ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ നീളം പ്രശ്നമല്ല നിങ്ങൾ കാണുക നിങ്ങൾക്ക് അത്തരം എത്ര സംയോജിത നോഡുകൾ ഉണ്ടെന്ന് കാണുക എനിക്ക് 1 2 3 4 5 ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ എനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനാൽ ഞാൻ 5 ലംബങ്ങളുള്ള ഒരു ഗ്രാഫിൽ എത്തിയിരിക്കുന്നു ഈ ഗ്രാഫിൽ നിന്ന് കൂടുതൽ ജോഡി ലംബങ്ങൾ ലയിപ്പിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ കാണുന്നുവെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ ഈ ജോഡി വെരിറ്റികൾ ഒരു വ്യക്തിഗത വലയുമായോ ഒരു സംയുക്ത വലയുമായോ യോജിക്കുന്നു ഒന്നുകിൽ അവ തിരശ്ചീനമായി ലാപ്പുചെയ്യുന്നു അതിനർത്ഥം അവയെ ഇതേ ട്രാക്കിൽ വയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തിരശ്ചീനമായ ഒരു പരിമിതിയുണ്ട് ഞാൻ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വയ്ക്കണം അതേ ട്രാക്കിൽ വയ്ക്കാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും ലയിപ്പിക്കാൻ കഴിയാത്ത ഒരു പരിഹാരത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു അതിനാൽ വലകൾ ലയിപ്പിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ആത്യന്തിക പരിഹാരമാണിത് ഈ ഗ്രാഫ് നിങ്ങളോട് എന്താണ് പറയുന്നത് ഈ ഗ്രാഫ് പറയുന്നു 4 10 ഒരു ട്രാക്കിൽ ലയിപ്പിക്കാം 1 7 ഒരു ട്രാക്കിൽ ലയിപ്പിക്കാം 5 6 9 ലയിപ്പിക്കാം 3 8 എന്നിവയും ലയിപ്പിക്കാം അതിനാൽ അവസാന ഘട്ട ട്രാക്ക് അസൈൻമെന്റ് അതിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഗ്രാഫിലെ ആദ്യ ട്രാക്കിലെ ലംബങ്ങൾ ഇവയാണ് നിങ്ങൾ ഇപ്പോൾ വെർട്ടിക്കൽ കൺസ്ട്രെയിന്റ് ഗ്രാഫ് ഉപയോഗിച്ച് ഓർഡർ ചെയ്യുക നിങ്ങൾ ആദ്യം 4 10 ഇൻകമിംഗ് അരികുകൾ എടുക്കണം തുടർന്ന് 1 7 തുടർന്ന് 5 6 9 ഈ 2 ഏത് ക്രമത്തിലും ചെയ്യാം 2 ഒപ്പം ഏത് ക്രമത്തിലും 3 പോയിന്റ് അതിനാൽ ട്രാക്ക് 1 ഞാൻ ഇത് ഇട്ടു ട്രാക്ക് 2 ഞാൻ ഇട്ടു ട്രാക്ക് 3 ഇത് 4 5 5 എനിക്ക് 3 ഉം 8 ഉം ഒരുമിച്ച് ചേർക്കാം 3 8 ഉം 2 ഉം 3 ഉം എനിക്ക് ആവശ്യമാണ് എനിക്ക് ഇത് മാറ്റാം ട്രാക്ക് 4 ഉം 5 ഉം ആകാം ആവശ്യമെങ്കിൽ മാറ്റി അതിനാൽ എനിക്ക് എന്റെ അന്തിമ പരിഹാരം ഇതുപോലെ ലഭിക്കുന്നു ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തെയും അഞ്ചാമത്തെയും ട്രാക്ക് അതിനാൽ എച്ച്സിജിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ സോണുകളെ വിശകലനം ചെയ്യുന്ന യോഷിമുറ കുഹ് അൽഗോരിതത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം ഇതാണ് കൂടാതെ സ്റ്റാൻഡേർഡ് എക്സ്റ്റൻഡഡ് ലെഫ്റ്റ് എഡ്ജ് അൽഗോരിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ മികച്ച പരിഹാരം നൽകുന്നു അടുത്തതായി നാം അത്യാഗ്രഹമായ ഒരു രീതിയിലേക്ക് വരുന്നു ഗ്രിഡി ചാനൽ റൂട്ടർ അർത്ഥമാക്കുന്നത് ഞാൻ മുഴുവൻ പ്രശ്നവും ഒരേ സമയം നോക്കുന്നില്ല എന്നാണ് ഞാൻ പ്രശ്നം ക്രമാതീതമായി നോക്കുന്നു പ്രത്യേകിച്ചും ഞാൻ ആദ്യ നിരയിൽ നിന്ന് ആരംഭിക്കുന്നു ഞാൻ തുടർച്ചയായി ആദ്യം മുതൽ രണ്ടാമത് രണ്ടാമത്തേത് മുതൽ മൂന്നാമത്തേത് വരെ തുടരുന്നു മൂന്നാമത്തേത് മുതൽ നാലാമത്തേത് വരെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വലകൾ റൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത്യാഗ്രഹം എന്നാൽ ഓരോ ഘട്ടത്തിലും ഞാൻ ഏറ്റവും മികച്ച പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാൽ മൊത്തത്തിൽ അത് ഒരു നല്ല പരിഹാരത്തിലേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ നയിച്ചേക്കാം ഇപ്പോൾ വിസിജിയിലെ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള അനിയന്ത്രിതമായ സാഹചര്യം ഇവിടെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് ആശയം നൽകാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഞാൻ അവബോധപൂർവ്വം നൽകട്ടെ ഒരു വിസിജി സൈക്കിളിനൊപ്പം എനിക്ക് ഒരു ലളിതമായ ഉദാഹരണമുണ്ടെന്ന് കരുതുക 1 മുതൽ 2 വരെ 2 മുതൽ 3 വരെ 3 മുതൽ 1 വരെ പറയുക ഞങ്ങൾ ഇതുവരെ കണ്ട രീതികൾ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നിന്ന് ആരംഭിക്കുന്നു കോളം ബൈ കോളം ഞങ്ങൾ നീക്കുന്നു ഇവിടെ 3 കോളങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യത്തെ കോളം 2 ന്റെ മുകളിൽ 1 ആണെന്ന് ഞാൻ കാണുന്നു അതിനാൽ എനിക്കുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ 1 ന് നെറ്റ് ആരംഭിക്കുന്നു ഞാൻ 2 ന് ഒരു നെറ്റ് ആരംഭിക്കുന്നു ഒരു കൂട്ടം നിയമങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ഉടൻ സംസാരിക്കും അതിനാൽ ഞാൻ ഇത് ചെയ്തു അതിനാൽ ഇപ്പോൾ ഞാൻ രണ്ടാമത്തേതിലേക്ക് പോകുന്നു രണ്ടാമത്തേത് ഞാൻ കാണുന്നത് ഞാൻ ഇതിനകം 1 ൽ തുടരുകയാണ് ഞാൻ ഇതിനകം 2 ൽ തുടരുകയാണ് എന്നാൽ എനിക്ക് ഇവിടെ 2 ഉം 2 ഉം ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ 2 എനിക്ക് ഈ 2 ലേക്ക് കണക്റ്റുചെയ്യാം കാരണം 2 നും 3 നും ഒരു ടെർമിനൽ ഉണ്ട് പുതിയ കണക്ഷൻ വരുന്നു അതിനാൽ 3 മൂന്നാം ട്രാക്കിൽ ആരംഭിക്കും 2 ഇതിനകം പൂർത്തിയായി അതിനാൽ 2 നീട്ടേണ്ടതില്ല പക്ഷേ 1 നീട്ടേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത്തേതിലേക്ക് നീങ്ങുന്നു അതിനാൽ ഈ 1 ഇവിടെ വരുന്നു 3 ഇവിടെ വരുന്നു ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു ഈ നെറ്റ് 3 ലും ഈ നെറ്റ് 1 ലും കണക്റ്റ് ചെയ്താൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വരുന്നു കാരണം ഇത് ചുവടെയുള്ള ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നതിന് ഇത് മുകളിലെ ടെർമിനലുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ രണ്ടും നീല വഴി ബന്ധിപ്പിച്ചാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും സാഹചര്യം സംഭവിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് മറ്റൊരു വലയും ഇവിടെ നിന്ന് മറ്റൊരു വലയും ആരംഭിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇതും 3 ആയിരിക്കും ഇതും 1 ആയിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ അടുത്ത നിരകളിലേക്ക് നീങ്ങുക അതിനാൽ ഇതിന് അധിക നിരകൾ ആവശ്യമായി വന്നേക്കാം അതിനാൽ അടുത്ത കോളത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഈ 1 നെ ഈ നീലയിൽ 1 മായി ബന്ധിപ്പിക്കുന്നു 1 നെ 1 നെ നീല നിറത്തിൽ ബന്ധിപ്പിക്കുന്നു നിങ്ങൾ ഇത് വീണ്ടും നീക്കുന്നു 3 നെ 3 മായി ബന്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ കണക്ഷൻ ഇതുപോലെയാക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ ഡോഗ്ലെഗുകൾ അനുവദിക്കുന്ന 2 കാര്യങ്ങളാണ് കാരണം നിങ്ങൾ കണക്റ്റുചെയ്യുമ്പോൾ ഉദാഹരണത്തിന് 3 ഉപയോഗിച്ച് 3 നമുക്ക് 2 തിരശ്ചീന സെഗ്മെന്റുകൾ ഉണ്ട് 1 കൂടെ 1 ഞങ്ങൾക്ക് 2 തിരശ്ചീന സെഗ്മെന്റുകളും ഉണ്ട് അതിനാൽ നിങ്ങൾ ഡോഗ്ലെഗുകൾ അനുവദിക്കുകയാണ് എന്നാൽ ഈ ഉദാഹരണം കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രക്രിയയിൽ ചില അധിക കോളങ്ങൾ ആവശ്യമായി വന്നേക്കാം അതിനാൽ ഡോഗ്ലെഗ് ചാനൽ റൂട്ടറിന് പിന്നിലെ അടിസ്ഥാന ആശയം ഇതാണ് അതിനാൽ പിന്തുടരുന്ന അടിസ്ഥാന നിയമങ്ങൾ ഞാൻ നിങ്ങളോട് പറയും അതിനാൽ ഗ്രിഡി ചാനൽ റൂട്ടർ ഞാൻ പറഞ്ഞതുപോലെ ഇടത് വശത്ത് നിന്ന് ആരംഭിക്കുന്ന കോളം വഴി ചാനൽ കോളം റൂട്ട് ചെയ്യുന്നു കൂടാതെ ഞാൻ സംസാരിക്കാൻ പോകുന്ന നിയമങ്ങളോ ഹ്യൂറിസ്റ്റിക്സുകളോ ഉണ്ട് വിസിജിയിലെ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളുമായും ഇത് അനിയന്ത്രിതമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും സൈക്കിളുകൾ പക്ഷേ ഇതിന് ചാനലിന്റെ അവസാനം അധിക കോളങ്ങൾ ആവശ്യമായി വന്നേക്കാമെന്ന് ഞാൻ കാണിച്ചു അതിനാൽ ചില ഹ്യൂറിസ്റ്റിക്സ് ഇതുപോലെയാണ് ഇടതുവശത്ത് നിന്ന് ആരംഭിച്ച് എല്ലാ സെഗ്മെന്റുകളും കോളം അനുസരിച്ച് സ്ഥാപിക്കുക നിങ്ങൾ കണ്ടെത്തുന്നതെന്തും അനുബന്ധ വലയുടെ ട്രങ്ക് സെഗ്മെന്റിലേക്ക് ഏതെങ്കിലും ടെർമിനൽ കണക്റ്റുചെയ്യുക ഞങ്ങൾ ഇവിടെ അവസാനം ചെയ്യുന്ന ഒരു ലംബമായ സെഗ്മെന്റ് ഉപയോഗിച്ച് ഏതെങ്കിലും സ്പ്ലിറ്റ് നെറ്റ് ചുരുക്കുക കാണുക ഇവിടെ അവസാനം ഈ 2 സ്പ്ലിറ്റ് നെറ്റുകൾ ലംബമായ സെഗ്മെന്റിനെ ബന്ധിപ്പിക്കുന്നു ഇവിടെയും ഞങ്ങൾ ലംബമായ സെഗ്മെന്റ് ഉപയോഗിക്കുന്നു ഇതാണ് ലംബമായ സെഗ്മെന്റിൽ ബന്ധിപ്പിച്ച് 2 തിരശ്ചീന സെഗ്മെന്റിനെ ചുരുക്കി 2 ട്രാക്കുകൾക്കിടയിലുള്ള ദൂരം കുറയ്ക്കാൻ ശ്രമിക്കുക ആശയം പോലെ നിങ്ങൾ 1 ഇവിടെയും ഇതുപോലെയുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ ഈ 1 ഉണ്ടെന്നും അവിടെ എവിടെ നിന്നെങ്കിലും മറ്റൊരു 1 വരുന്നുണ്ടെന്നും നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ 1 വല നിങ്ങൾക്ക് ഇതുപോലെ വരച്ചിട്ടുണ്ട് 1 ഇതും ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾ ഇത് ഇതിലേക്ക് കഴിയുന്നത്ര അടുപ്പിക്കാൻ ശ്രമിക്കുക ഇതാണ് ഇവിടെ പോലെയുള്ള 2 ന്റെ സെഗ്മെന്റുകളിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു 3 ഉം 3 ഉം സമാന്തരമായി പ്രവർത്തിക്കുന്നു 1 ഉം 1 ഉം ഞങ്ങൾ സമാന്തരമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ അവയെ കഴിയുന്നത്ര അടുത്ത് നീക്കാൻ ശ്രമിക്കുക ഇവിടെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു ഒപ്പം ശ്രമിക്കുക അടുത്ത ടെർമിനൽ അടങ്ങുന്ന അതിർത്തിയിലേക്ക് വലകൾ നീക്കുക എന്റെ അടുത്ത ടെർമിനൽ ഇവിടെയുണ്ടെന്ന് ഞാൻ കാണുകയാണെങ്കിൽ അത് കഴിയുന്നത്ര താഴേക്ക് നീക്കാൻ ഞാൻ ശ്രമിക്കുന്നു തീർച്ചയായും ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് അധിക ട്രാക്കുകൾ ആവശ്യമാണ് നിങ്ങൾ ഈ ഹ്യൂറിസ്റ്റിക്സ് പിന്തുടരുകയാണെങ്കിൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് നിങ്ങളുടെ കൈകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു കൂടാതെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുക ഇടത് ഞങ്ങൾ ഒരു അസൈനിൽ നിന്ന് ഒരേ ട്രാക്കിലേക്ക് പോകുന്നു രണ്ടാമത്തേത് നിങ്ങൾ ട്രാക്ക് 2 ആരംഭിക്കുന്നു ഹ്യൂറിസ്റ്റിക് ഉപയോഗിച്ച് 1 ന്റെ അടുത്ത ടെർമിനൽ ചുവടെയുണ്ട് അതിനാലാണ് നിങ്ങൾ അത് കഴിയുന്നത്ര താഴെ കൊണ്ടുവരുന്നത് അതിനാൽ നിങ്ങൾ 1 ഇവിടെ കൊണ്ടുവരിക അതിനാൽ ഈ രീതിയിൽ നിങ്ങൾ വീണ്ടും തുടരുക ഈ ടെർമിനൽ 2 വരുന്നു എന്നാൽ 2 ന്റെ അടുത്ത ടെർമിനൽ ഉയർന്നു അതിനാൽ കഴിയുന്നത്ര ഉയർത്തുക അതിനാൽ നിങ്ങൾ എല്ലാ ഹ്യൂറിസ്റ്റിക്സും ഉപയോഗിക്കുകയും നിങ്ങൾക്ക് ഇതുപോലൊരു പരിഹാരം ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ചില വലകളിൽ ഡോഗ്ലെഗ് ലഭിക്കുന്നു ഇവിടെയും നിങ്ങൾക്ക് ഒരു ഡോഗ്ലെഗ് ലഭിക്കും അതിനാൽ ഇതോടെ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ എത്തും അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടരും